അതിനാൽ ഇതുപോലുള്ള മറ്റൊരു ഉദാഹരണം എടുക്കാം ഇതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഫേസർ ഡയഗ്രം ഇവിടെ കാണിക്കുന്നു V1 V2 V3 നൽകിയിരിക്കുന്നു ഇത് ഒരു ഫേസർ അളവാണ് അതിനാൽ V1 യഥാർത്ഥത്തിൽ ഇവിടെ V1 38 5o ഈ സാഹചര്യത്തിൽ ഇത് V1 ആണ് അതുപോലെ ഇത് V2 ആണ് ഇത് V3 ആണ് ഇപ്പോൾ ഇത് V1 ആണ് 47 ∟ 590 വെക്റ്ററിന്റെ വഴി ചെയ്യണം അതിനാൽ V1 V2 V2 76 5o പിന്നെ ഇത് V3 V3 14 2 j 15 92 ഇതെല്ലാം ചേർത്താൽ ഇത് 100 ∟ 0 o അതിന്റെ അർത്ഥം മാഗ്നിറ്റുഡ് പാർട് വേർതിരിച്ച നൽകിയിട്ടുണ്ട് അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അടുത്ത ഉദാഹരണംഇത് വളരെ രസകരമായ ഒരു ഉദാഹരണമാണ് ഈ ഒരു ഉദാഹരണം നമ്മെ വളരെയധികം സഹായിക്കും ഉദാഹരണത്തിന് ഇത് ഒരു ലളിതമായ സീരീസ് സർക്യൂട്ട് വോൾട്ടേജ് V3 ആണ് അതിനാൽ V3 ഇതിന് 45 വോൾട്ട് നൽകിയിരിക്കുന്നു അതിനാൽ ഇത് 45 വോൾട്ട് ആണ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഈ വോൾട്ടേജ് V4 50 വോൾട്ട് നൽകി ഒരു ഡിസി സർക്യൂട്ട് ആവൃത്തി ഈ f വോൾട്ടേജ് V അതായത് സപ്ലൈ വോൾട്ടേജ് V ഇവയാണ് നമ്മൾ നിർണ്ണയിക്കേണ്ടത് I 35 ആമ്പിയർ വൈദ്യുത പ്രവാഹത്തിന്റെ അളവാണ് ഇത് ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുമ്പോൾ നമ്മൾ അനുമാനിക്കുന്നത് V1 25 വോൾട്ട് V2 40 വോൾട്ട് V3 45 വോൾട്ട് ഈ വോൾട്ടേജ് 50 V4 50 വോൾട്ട്എന്ന് പറയുക ഇവയെല്ലാം ആണ് അതിനാൽ ഇപ്പോൾ കറന്റ് മാഗ്നിറ്റ്യൂഡ് I V3X e ഉദാഹരണത്തിന് ഈ സർക്യൂട്ടിൽ കറന്റ് ഒഴുകുന്നത് കണ്ടെത്തേണ്ടതുണ്ട് ഇതാണ് വൈദ്യുത പ്രവാഹം സർക്യൂട്ട് വഴി ഈ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ഇതാണ് റെസിസ്റ്റൻസ് X c V x c I അത് 35 അമ്പയർ ആണ് x c 1 ω c അത് നൽകിയാൽ V ω c I 35 വോൾട്ടേജ് ആയിരിക്കും ഇത് യഥാർത്ഥത്തിൽ നമ്മൾ എടുത്ത V3 ആണ് അതിനാൽ V c അറിയപ്പെടുന്നു V3 അറിയപ്പെടുന്നു ω 2 πpi f അതിൽ നിന്ന് f ലഭിക്കും അതിനാൽ f ന്റെ മൂല്യം എന്താണെന്ന് ഈ വഴി കണ്ടെത്താനാകും ഇത് പരിശോധിക്കുകയാണെങ്കിൽ V3 X ആണ് അതിൽ നിന്ന് നമുക്ക് f 2 475 കിലോ ഹെർട്സ് ലഭിക്കും അതുപോലെ തന്നെ R പ്രതിരോധത്തിന്റെ തലത്തിലുള്ള V 1 വോൾട്ടേജ് 25 വോൾട്ട് ആണ് അതിനാൽ ഇത് 25 വോൾട്ട് മാഗ്നിറ്റ്യൂഡ് 35 ആമ്പിയർ അതിനാൽ R 0 ഞങ്ങൾക്ക് R ലഭിച്ചു ഇപ്പോൾ 2 475 കിലോ ഹെർട്സ് ആവൃത്തി ലഭിച്ചു അടുത്തത് ഈ ഡയഗ്രാമിൽ നിന്നാണ് ഇപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് നൽകുന്നത് സർക്യൂട്ട് ഇതുപോലെയാണ് R റെസിസ്റ്ററിൽ L പിന്നെ എന്റെ കപ്പാസിറ്റൻസ് ഇപ്പോൾ വോൾട്ടേജ് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഇതിന് 50 വോൾട്ട് നൽകി അതായത് V4 ഇത് 50 വോൾട്ട് നൽകുന്നു അതിനാൽ ഈ ഒരു R യലുടനീളമുള്ള ഈ വോൾട്ടേജ് നൽകുന്നത് 25 വോൾട്ട് ആണ് V1 ആണ് കൂടാതെ ഇൻഡക്റ്റർ അളവ് നോക്കുമ്പോൾ ചില കോണുകൾ ഉണ്ടായിരിക്കണം എന്നാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ V1 വോൾട്ടേജ് ഡ്രോപ്പ് R ൽ 25 വോൾട്ട് ആണ് 25 വോൾട്ട് ഇത് ഒരു റഫറൻസായി എടുത്തു V2 ഇതാണ് അതായത് 40 വോൾട്ട് ഇത് V1 ആണ് ഇത് V2 ആണ് ഈ വോൾട്ടേജ് V4 V ഉം ഈ ആംഗിളും തീറ്റ ഉണ്ടാക്കുന്നു കാരണം ഈ വോൾട്ടേജ് അളവുകൾ നൽകിയിരിക്കുന്നു ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും നമുക്ക് എല്ലാ അളവുകളും അറിയാവുന്നതാണ് ത്രികോണത്തിന് കോസൈൻ നിയമ൦ ഉപയോഗിക്കേണ്ടതാണ് അതിനാൽ ഉദാഹരണമായി ഇവിടെ ഞാൻ അത് ചെയ്യുന്നുണ്ട് ഈ ആംഗിൾ A ആണെന്ന് കരുതുക അതിനാൽ ഇത് വിപരീത ഭുജമാണ് a ഈ ആംഗിൾ B ആണെന്ന് കരുതുക b വിപരീത ഭുജമാണ് ഈ ആംഗിൾ C എന്ന് പറയുന്നു അതിനാൽ c വിപരീത ഭുജമാണ് ഇത് A തീറ്റയാണെന്ന് അറിയുക അതിനാൽ cos A 2 bc അതിൽ നിന്ന് അറിയാം അതിനാൽ ആ സാഹചര്യത്തിൽ 402 502 252 25025 cos θ അതിനാൽ എനിക്ക് ആ ഫോർമുലയിൽ നിന്നും ഇങ്ങനെ എഴുതാം ഞങ്ങൾ ഈ ഫോർമുല എഴുതിയിട്ടുണ്ട് ക്ലാസ് 11 ഗണിതശാസ്ത്രത്തിലുള്ള കോസൈൻ ത്രികോണമിതി ആണിത് ഇത് എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു 402 502 252 25025 cos θ അതിനാൽ ഇവിടെ നിന്ന് cos theta 0 61 ലഭിക്കും ഈ വശം തിരശ്ചീന വശം 50 cos 52 4 ആയിരിക്കും കാരണം തീറ്റ 52 4 o ആയിരിക്കും അതിനർത്ഥം 50 cos 52 4 എടുത്താൽ അത് യഥാർത്ഥത്തിൽ ഏകദേശം 30 5 ആയിത്തീരും അതിനർത്ഥം R യലുടനീളമുള്ള വോൾട്ടേജ് ഡ്രോപ്പ് 30 5 25 5 5 ആയിരുന്നു അതിനാൽ ഇത് 5 ഇതാണ് r ലെ വോൾട്ടേജ് ഡ്രോപ്പ് അതിനാൽ r ലെ വോൾട്ടേജ് ഡ്രോപ്പ് 5 5 ആണ് അതായത് I r 5 I 35 ആമ്പിയർ നൽകിയിരിക്കുന്നു അതിനാൽ r 5 5 35 Ω കണക്കുകൂട്ടലുകൾ പിന്നീട് നൽകാം ഈ ലംബ൦ 50 sin 52 4 o ആണ് അതിനാൽ ഇത് 39 അതിനാൽ ഇതിൽ നിന്ന് നമുക്ക് തീറ്റ 52 5 o ലഭിക്കുന്നു ഇത് 30 5 ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു r ലെ വോൾട്ടേജ് ഡ്രോപ്പ് 5 5 വോൾട്ടേജ് ആയിരിക്കും കൂടാതെ L ലെ വോൾട്ടേജ് ഡ്രോപ്പ് 39 61 o കാരണം ഇത് എടുത്താൽ അത് r j L ആണ് ഇതാണ് ആ ഇൻഡക്ടറിന്റെ പ്രതിരോധം അതിനാൽ ഇത് ചെറിയ r ആണ് ഇതിനായി ലംബ പ്രൊജക്ഷൻ 39 6 ആണ് അതിനാൽ ഇൻഡക്ടറിലുടനീളമുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ഇത് V L 39 61 വോൾട്ട് അതിനാൽ ഇവിടെ ഞാൻ എഴുതുന്നത് L ൽ ഉടനീളമുള്ള വോൾട്ടേജ് ഡ്രോപ്പ് 39 61 വോൾട്ട് ആണ് അതിനാൽ Ir 5 അതിനാൽ r 0 അതുപോലെ I X L 39 61 X L L ω ആണ് അതിനാൽ L 2 pi ω യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ω 2 pi f ലഭിച്ചു ഇവിടെ X L L ω ഇത് L 2 pi f ആണ് അങ്ങനെ നമുക്ക് 2 475 കിലോ ഹെർട്സ് 2 475 1000 ഹെർട്സ് അതുകൊണ്ടാണ് ഇത് 1000 കൊണ്ട് ഗുണിക്കുകയും ഹെർട്സ് ആയി പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തത് കിലോ ഹെർട്സ് ആയിരുന്നു എങ്കിൽ ഈ L കണക്കാക്കുക അത് 0 073 മില്ലീ ഹെൻറി ആണ് അതിനാൽ ഈ രീതിയിൽ ഇത് ചെയ്തു v ഇപ്പോൾ അടുത്തത് സപ്ലൈ വോൾട്ടേജ് V ആണ് സർക്യൂട്ട് ഇതുപോലെ ആയിരുന്നു ഇത് R പിന്നെ r പിന്നെ ഇൻഡക്ടർ L പിന്നെ കപ്പാസിറ്റർ C അതിനാൽ വിതരണ വോൾട്ടേജ് V ഇതിലൂടെ V1 ഈവിടെ V2 ഇത് V3 ആണ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഞങ്ങൾ V4 എടുത്തു അതിനാൽ V1 25 വോൾട്ട് V2 40 വോൾട്ട് V4 50 വോൾട്ട് V3 45 വോൾട്ട് എന്നിവയാണ് അതിനാൽ ഫാസറിൽ അളവാണ് എങ്കിൽ ഞാൻ ഫേസർ രൂപത്തിൽ ഇത് ഇതുപോലെയായിരിക്കും അതിനാൽ ഈ V V4 ഇവിടെ നിന്ന് പിന്നെ ഈ വോൾട്ടേജും ഇവിടെ നിന്ന് ഇവിടേക്ക് ഇത് V1 V2 V3 ആണ് V3 കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജ് V3 V c എന്ന് പറയുന്നു ഇത് യഥാർത്ഥത്തിൽ 45 വോൾട്ട് ആണ് അതിനാൽ ത്രികോണ രേഖാചിത്രത്തിലെ അഞ്ചാം ഘട്ടത്തിൽ ഇത് 39 61 ആയിരുന്നു ഇതിനർത്ഥം ഇവിടെ നിന്ന് ഇവിടെ വരെ ഈ ഭാഗം 45 39 61 ആയിരിക്കും കാരണം V V4 V3 ഇത് വളരെ രസകരമായ ഒരു പ്രശ്നമാണ് അതിനാൽ നിങ്ങൾ വ്യത്യാസം എടുക്കുകയാണെങ്കിൽ ഈ ഭാഗം 45 39 61 ആയിരിക്കും ഇതിനർത്ഥം ഇത് കറന്റ് I ഇതാണ് എന്റെ റഫറൻസ് കറന്റ് അതിനാൽ ഇത് ഞങ്ങൾ കണക്കാക്കി അതാണ് V3 കപ്പാസിറ്ററിലുടനീളം വോൾട്ടേജ് ഇവിടെ വരയ്ക്കുന്നത് ഇത് ഇവിടെ വരച്ചിരിക്കുന്നു ഈ ലംബ൦ ഇതാണ് ഞാൻ പറഞ്ഞതു അതിനർത്ഥം വോൾട്ടേജിന്റെ മാഗ്നിറ്റുഡ് V ആയിരിക്കും ഇത് ഒരു മട്ടത്രികോണമാണ് അതിനാൽ ഇത് V √2 ആണ് ഈ കണക്കുകൂട്ടലുകൾ നടത്തിയത് ഇത് ഏകദേശം 31 വോൾട്ട് ആണ് 𝞪 tan 1 10 o പവർ ഫാക്ടർ cos 10 o 0 9848 ആയിരിക്കും പ്രതിരോധത്തിലുടനീളമുള്ള വോൾട്ടേജ് ഇത് R ആണ് ഇത് ചെറിയ r ആണ് അതിനാൽ ആകെ തുക എടുക്കണം കറന്റു I I 2 r 1 0669 കിലോവാട്ട് വരുന്നു അതുപോലെ P VI cos 𝞪 അതിനാൽ 31 35 0 9848 കാരണം പവർ ഫാക്ടർ 0 ഇത് ഉത്തരമാണ് അതിനാൽ I2 r V I cos 𝞪 പൊരുത്തപ്പെടണം ഇപ്പോൾ അടുത്തത് മറ്റൊരു ഉദാഹരണം വോൾടേജ് ഒന്നും പരാമർശിക്കാത്തപ്പോഴെല്ലാം വോൾടേജ് 231 എന്ന് എടുക്കണം അതായത് 231 വോൾട്ട് എന്നാൽ അത് ആർഎംഎസ് മൂല്യം ആണെന്നും നമ്മൾ അത് എടുക്കുമ്പോൾ എല്ലാ സമയത്തും അത് പരാമർശിച്ചിട്ടില്ല എങ്കിൽ 231 ആംഗിൾ 0 o എന്ന് പറയുക മറ്റൊരു കാര്യം ലോഡിന് 0 8 പവർ ഫാക്ടർ ലാഗിംഗ് എന്നാൽ കറന്റ് വോൾട്ടേജിനു പിന്നിലാണെന്നാണ് അതിനാൽ കറന്റ് ലാഗ് ചെയ്യുന്നു കൂടാതെ ലോഡ് 10 കിലോ വോൾട്ട് ആമ്പിയർ ആണ് അത് 10000 വോൾട്ട് ആമ്പിയർ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പവർ ഫാക്ടർ 0 8 നിന്നും നമുക്ക് ആ പവർ ഫാക്ടർ 0 9 ആക്കണം ഇതിനായി ഞങ്ങൾ ഒരു ഷണ്ട് കപ്പാസിറ്റർ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ I എന്താണ് IC അല്ലെങ്കിൽ C മൂല്യം എന്താണ് കപ്പാസിറ്റർ കണക്റ്റുചെയ്തതിനുശേഷം ലോഡ് കറന്റ് എന്താണ് എന്ന് ഞങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഇതിനർത്ഥം ഇതാണ് പ്രശ്ന നിർവചനം അതിനാൽ ഈ പവർ ഫാക്ടർ ലഭിക്കാൻ വേണ്ട C യുടെ മൂല്യം ലോഡ് ഷണ്ട് കപ്പാസിറ്റർ 0 95 ലാഗിംഗ് കപ്പാസിറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പും ശേഷവും എത്രയെന്നു കണ്ടെത്തണം നമ്മൾ കപ്പാസിറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുബ് ഈ സർക്യൂട്ട് ഇത് അവിടെ ഉണ്ടാവില്ല ആ സമയത്ത് I IL ഇത് ബന്ധിപ്പിച്ചിട്ടില്ല ഇത് ലളിതമായ സർക്യൂട്ട് ആണ് അതിനാൽ ഇത് നീക്കംചെയ്യുന്നുവെന്ന് കരുതുക ഇപ്പോൾ കറന്റ് ഇതുപോലെ ഒഴുകും ഇത് നീക്കംചെയ്യുന്നു ഈ വോൾട്ടേജ് ഉറവിടം അവിടെയുണ്ട് അതിനാൽ ആ സമയത്ത് ഇത് I IL ആ സമയത്ത് നമ്മൾ കറന്റ് എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇത് ഇട്ടതിനുശേഷം നമുക്ക് സംയോജിത പവർ ഫാക്ടർ ഞങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ C IC മുതലായവയുടെ മൂല്യം എന്തായിരിക്കും അതിനാൽ കപ്പാസിറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുമുമ്പ് ഇതിനകം തന്നെ ലോഡ് ഉപയോഗിച്ച് കറന്റ് എടുക്കുന്നു കപ്പാസിറ്റർ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ കപ്പാസിറ്റർ നീക്കംചെയ്യുന്നു അതിനാൽ IL അപ്പറന്റ് പവർ ലോഡ് വോൾട്ടേജ നൽകിയിരിക്കുന്നു അതിനാൽ പവർ ഫാക്ടർ 36 9 ആണ് ഇതിനർത്ഥം കറന്റ് യഥാർത്ഥത്തിൽ 43 9 o പവർ ഫാക്ടർ ലാഗിംഗ് എന്ന് വരുമ്പോഴെല്ലാം കറന്റ് ലാഗിംഗ് ആണ് ഇപ്പോൾ ഇതാണ് കറന്റ് 43 9 o ഇപ്പോൾ ഞങ്ങൾ ഒരു കപ്പാസിറ്റർ ബന്ധിപ്പിച്ചിരിക്കുന്നു നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കുമ്പോഴെല്ലാം ആദ്യം നോട്ട്ബുക്കിൽ സർക്യൂട്ട് വരയ്ക്കുക തുടർന്ന് ഈ വീഡിയോ പ്രഭാഷണം കേൾക്കുക മൊത്തത്തിലുള്ള f പവർ ഫാക്ടർ ഉണ്ടാക്കാൻ ഇപ്പോൾ നമ്മൾ അത് 0 95 ലാഗിംഗ് ആക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ cos 𝛿 ഇപ്പോൾ എന്താണ് പുതിയ പവർ ഫാക്ടർ പറയുന്നത് cos 𝛿 0 95 എന്നാണ് അതിനാൽ 𝛿 18 2 o ഇത് ലാഗിംഗ് ആണ് ഇപ്പോൾ കപ്പാസിറ്റർ വൈദ്യുതധാര 90 o യിൽ ലീഡ് ചെയ്യുന്നു V IC എന്നിവ ലംബമായി കാണിച്ചിരിക്കുന്നു ഈ ചിഹ്നം V ലംബമായും V യെ 90 o ഇൽ ലീഡ് ചെയുന്നു എന്നുമാണ് അതിനാൽ ഇത് നിലവിൽ കറന്റ് നോക്കുകയാണെങ്കിൽ വോൾട്ടേജ് V 231 ∟ 0 o ആണ് അതിനാൽ ഞങ്ങൾ ഈ IL എടുത്തു ഇത് നിലവിലെ കറന്റ് 43 29 ആണ് ഈ ആംഗിൾ 36 അല്ലെങ്കിൽ കറന്റ് പിന്നിലാണ് ഇത് 36 9 o ആണ് ഇപ്പോൾ കപ്പാസിറ്റർ ഇട്ടതിനുശേഷം കപ്പാസിറ്റർ യഥാർത്ഥത്തിൽ കപ്പാസിറ്റീവ് കറന്റ് 90 o യിൽ വോൾട്ടേജിനെ ലീഡ് ചെയ്യും അതിനാൽ ഇത് IC ഞങ്ങൾക്ക് ഉള്ളത് ഒരു ഫേസർ ആണ് അതിനാൽ അത് വായിക്കുന്നതിലൂടെ ഞങ്ങൾ IC യെ അത് വെക്റ്റർ തന്നെയാണ് ഈ ഡെൽറ്റയാണ് ഈ ഭാഗം ഇത് നൽകിയിട്ടുള്ള IC യഥാർത്ഥത്തിൽ ഒന്നാണ് പവർ ഫാക്ടർ 0 95 ആയിരിക്കണം അതിനാൽ ഞങ്ങൾക്ക് നാല് പുതിയ പവർ ഫാക്ടർ ആംഗിൾ 18 2 o ആണ് പവർ ഫാക്ടർ 2 95 ആയി മെച്ചപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ ഉയരം q ആണ് ഇത് y ആണെന്ന് പറയുക ഇതിൽ നിന്നും എന്റെ IL ആണ് ഇത് എന്റെ IL ആണ് അത് 43 29 o അതിനാൽ x ഇത് എന്റെ x x IL cos 36 9o ഇത് എന്റെ x ആണ് അതിനാൽ തിരശ്ചീന പ്രൊജക്ഷൻ ഇത് 34 63 ആണ് ഇപ്പോൾ y ഇത് y ആണ് ഇത് ഡെൽറ്റയാണ് അതിനാൽ tan 𝛿 y x x നമുക്ക് 34 63 ഉം tan 𝛿 ഡെൽറ്റ 18 2 o ഉം ആണ് കാരണം നമുക്ക് പവർ ഫാക്ടർ 0 95 ലാഗിംഗ് വേണം അതിനാൽ ഇത് 18 2 o ആണ് തീറ്റ tan 18 2 o അതിനാൽ അതിന്റെ അർത്ഥം y 11 39 അതായത് ഈ ഉയരം y 11 ഇതിനർത്ഥം IC ഈ IC മാഗ്നിറ്റുഡ് കാണിക്കുന്നു അതിനർത്ഥം q ലംബ പ്രൊജക്ഷൻ IL sin തീറ്റ അതിനാൽ ഇത് എന്റെ q ആണ് ഇത് യഥാർത്ഥത്തിൽ എത്രമാത്രം വരുന്നു 43 29 sin 36 9 o അതിനാൽ q യഥാർത്ഥത്തിൽ 26 വരുന്നു ഇതാണ് ഉയരം എന്റെ 26 ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് y ലഭിച്ചു q y ഇത് എന്റെ IC ആണ് q y I C അതിനാൽ IC q എന്നത് 26 ഉം y ഞങ്ങൾക്ക് 11 39 ലഭിച്ചു എന്തായാലും ഇത് എന്റെ കപ്പാസിറ്റർ കറന്റ് I I L ഇത് 43 29 ആണ് അതിനാൽ ഇത് q y ആയിരിക്കും 26 11 ഇത് അങ്ങനെ ചെയ്താൽ ഇതാണ് വിതരണ കറന്റ് I √ എടുത്തു അത് അവിടെ എഴുതിയതിനാൽ യഥാർത്ഥത്തിൽ എന്താണ് q y ഇത് 14 61 ആമ്പിയർ വരുന്നു അങ്ങനെ v അറിയാം ω അറിയാം അതിനാൽ IC അറിയാം C യുടെ മൂല്യം എന്താണെന്ന് കണ്ടെത്താൻ കഴിയും ഈ I C 14 61 ω 2 pi f f 50 ഹെർട്സ് ആവൃത്തി നൽകി വോൾട്ടേജ് 231 അതിനാൽ C 201 മൈക്രോ ഫാരഡ് ഇതാണ് ഉത്തരം അതുപോലെ സമാനമായ മറ്റൊരു കാര്യം ഇത് സമാന്തര സർക്യൂട്ട് നൽകിയിരിക്കുന്നു 100 വോൾട്ട് എന്നാൽ 100 ∟0 എടുക്കുക അത് 6 j 8 ആണ് ഇത് 4 j 3 ആണ് അതിനാൽ I 1 I 2 കണ്ടെത്തണമെങ്കിൽ ഈ സാഹചര്യത്തിൽ V 100∟ 0 I 1 100∟ 0 6 j 8 10∟ 53 2 o ആമ്പിയർ 8o ആമ്പിയർ ലഭിക്കും കൂടാതെ I KCL പ്രയോഗിക്കുക I 1 I 2 22 3o ആയിരിക്കും ഇത് I ആണ് എളുപ്പമുള്ള കണക്കുകൂട്ടലിന്റെ മറ്റൊരു മാർഗ്ഗം Y 1 Z അതായത് അഡ്മിറ്റൻസ് 1 Z ആണ് Y1 1Z1 1 0 06 j0 08 Y2 1Z2 1 0 16j0 12 ഇതാണ് അഡ്മിറ്റാൻസ് ആണ് അതിനാൽ ഇതിനർത്ഥം Y 1 0 0 6 j 0 08 g1 jb1 g10 06 b10 08 അതുപോലെ Y 2 0 16 j 0 12 g 2 j b 2 g 2 0 16 b 2 0 അതിനാൽ സമാന്തര പ്രതിരോധം പോലെ ഇംപെഡൻസ് അതെ രീതിയിൽ ചെയ്യാം 1 Z 1 Z 1 1 Z 2 ചെയ്യുന്നു ഇവിടെയും 1Z 1Z11Z2 1 Z Y അതിനാൽ Y Y 1 Y 2 അതിനാൽ സമാന്തര സർക്യൂട്ടിനായി അഡ്മിറ്റാൻസ് എന്നും വിളിക്കുന്നു അതിനാൽ g g 1 g 2 0 22 b b 1 b 2 0 04 Y g jb 0 22 j 0 04 mho ആയിരിക്കും ഇപ്പോൾ I V Z എന്നാൽ 1 Z Y അതിനാൽ അത് YV ആയിരിക്കും Y 100∟0 ഇത് V കൊണ്ട് ഗുണിച്ചാൽ I 22 3o അമ്പയർ ആകും അതുപോലെ I 1 V Y 1 10 ∟ 53 2o ആമ്പിയർ ആയിത്തീരും കൂടാതെ I 2 20 ∟36 8o ആമ്പിയർ ആയിത്തീരും അതിനാൽ അഡ്മിറ്റാൻസ് പവർ ഫാക്ടർ cos10 3 o 0 9838 ഉം ഇൻപുട്ട് പവർ VI cos theta 2198 793 വാട്ട് അതുപോലെ തന്നെ P 1 I 12 R 1 എന്നത് 10 2 6 ബ്രാഞ്ച് 1 ന് ഇത് 600 വാട്ട് ആണ് ബ്രാഞ്ച് 2 ന് I 2 2 R 2 ഇത് 20 2 4 1600 വാട്ട് ആണ് ആകെ 2200 വാട്ട് ഇവിടെ വരുന്നു പക്ഷെ നേരത്തെ ഇത് 2198 793 വരുന്നു കാരണം ഈ ദശാംശസ്ഥാനം മൂന്ന് ദശാംശ സ്ഥാനങ്ങൾ വരെ എടുക്കുകയോ അഞ്ച് ദശാംശ സ്ഥാനങ്ങൾ വരെ എടുക്കുകയോ ചെയ്താൽ 2200 വാട്ട് ലഭിക്കും ഉദാഹരണത്തിന് പവർ ഫാക്ടർ ഞാൻ അഞ്ചാമത്തെ ദശാംശ സ്ഥാനം വരെ ഉൾപ്പെടുത്തിയാൽ ആ സാഹചര്യത്തിൽ അത് 2199 96 ആണ് അത് 2200 വാട്ട് ആയി ഏകദേശം മാച്ച് ആകുന്നു ഇവിടെ നാല് ദശാംശ സ്ഥാനം വരെ എടുത്താൽ ഇത് 2198 793 ൽ കാണിക്കുന്നത് പക്ഷേ അത് ഏകദേശം പൊരുത്തപ്പെടുന്നു